അടിസ്ഥാനപരമായി ഇതിന് ഇൻപുട്ട് ആവശ്യമാണ് എസ്സിറ്റേഷൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥിരാങ്കത്തെ ഗുണിച്ചാൽ പ്രതികരണമെന്ന് വിളിക്കുന്ന ഔട്ട്പുട്ട് അതേ സ്ഥിരാങ്കത്താൽ ഗുണിക്കുന്നു ഉദാഹരണത്തിന് ഒരു റെസിസ്റ്ററിന്റെ Ω's നിയമം ഇൻപുട്ട് കറന്റ് v വോൾട്ടേജിലേക്ക് വിടുന്നു അതിനാൽ v i R കോൺസ്റ്റന്റ് k കൊണ്ട് കറന്റ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ k R kv ആയ k അനുസരിച്ച് വോൾട്ടേജ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നു അതിനാൽ ഇത് സമവാക്യം 2 ശരിയാണ് ഇത് 4 2 അധ്യായം എന്നാൽ ഞാൻ ഇതുപോലുള്ള 2 3 ഉം അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയും പറയും ഇൻപുട്ടിന്റെ ഒരു തുകയ്ക്കുള്ള പ്രതികരണം പ്രത്യേകമായി പ്രയോഗിക്കുന്ന ഓരോ ഇൻപുട്ടിന്റെയും പ്രതികരണങ്ങളുടെ ആകെത്തുകയാണ് ഇൻപുട്ടിന് r ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഉണ്ടെന്ന് വിളിക്കുകയും ഔട്ട്പുട്ടിന് ഒരു പ്രതികരണവും ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക ഇപ്പോൾ ലഭിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രതികരണങ്ങളിൽ ഒരെണ്ണം പരിഗണിക്കുകയും അത് ഇൻപുട്ടുകളുടെ r തുകയ്ക്ക് തുല്യമാണെങ്കിൽ അത് സംഗ്രഹിക്കുകയും ഇൻപുട്ടിൽ ചേർക്കുകയും ഔട്ട്പുട്ട് പ്രതികരണം നേടുകയും ചെയ്യുന്നു അതിനാൽ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിക്ക് ഓരോ ഇൻപുട്ടുകൾക്കുമായുള്ള പ്രതികരണങ്ങളുടെ ആകെത്തുകയ്ക്കുള്ള പ്രതികരണം പ്രത്യേകം പ്രയോഗിക്കേണ്ടതുണ്ട് ഇൻപുട്ടിന് ധാരാളം r ഉണ്ടെന്ന് കരുതുക അതിനാൽ ഒരു സമയം ഒരെണ്ണം പരിഗണിക്കുക ഔട്ട്പുട്ട് പ്രതികരണം ലഭിക്കുന്നു ഇത് ചേർക്കുക ഇപ്പോൾ വീണ്ടും ഇൻപുട്ടിൽ എല്ലാ ഇൻപുട്ടുകൾക്കും ഔട്ട്പുട്ട് പ്രതികരണം ലഭിക്കുന്നു ഇവ രണ്ടും തുല്യമായിരിക്കണം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ആണ് അതിനാൽ v1 i1 R ഉം v2 i2 R ഉം ആണെങ്കിൽ ഒരു റെസിസ്റ്ററിന്റെ വോൾട്ടേജ് കറന്റ് ബന്ധം ഉപയോഗിക്കുന്നു I1 i2 പ്രയോഗിക്കുന്നതിലൂടെ ഇത് v i1 i2 R നൽകുന്നു അതായത് i1 r i2 R v r v1 v2 ഇത് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് അതിനാൽ ഈ അവസ്ഥയെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് റെസിസ്റ്റർ ഒരു രേഖീയ മൂലകമാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം വോൾട്ടേജ് കറന്റ് ബന്ധം ഏകതയെയും അഡിറ്റിവിറ്റി ഗുണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു മൂലകം രേഖീയമാണെന്ന് മാത്രമേ അതിന് പറയാൻ കഴിയൂ അതിന് ഏകതയെയും അഡിറ്റിവിറ്റി ഗുണങ്ങളെയും ശരിയായി തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു രേഖീയ മൂലകമാണെന്ന് പറയാൻ കഴിയും പൊതുവേ ഒരു സർക്യൂട്ട് ഏകതാനവും സങ്കലനവുമാണെങ്കിൽ ഒരു രേഖീയ മൂലകമാണ് ഒരു ലീനിയർ സർക്യൂട്ടിൽ രേഖീയ ഘടകങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ രേഖീയ ആശ്രിത ഉറവിടങ്ങളും സ്വതന്ത്ര ഉറവിടവും ഒരു ലീനിയർ സർക്യൂട്ടുകളിൽ ഒരു രേഖീയ ഘടകങ്ങൾ രേഖീയ ആശ്രിത ഉറവിടങ്ങൾ സ്വതന്ത്ര ഉറവിടങ്ങൾ എന്നിവ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം ലീനിയർ സർക്യൂട്ട് ആണ് ഒരു ഔട്ട്പുട്ട് അതിന്റെ ഇൻപുട്ടിന് നേരിട്ട് ആനുപാതികമാണ് തുടർന്ന് സർക്യൂട്ടിനെ ലീനിയർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു എന്നാൽ പവർ p i ചതുരം R v ചതുരശ്ര R ന് r എന്നത് അതിനെ ലീനിയർ അല്ലാത്തത് എന്ന് വിളിക്കുന്നു അതിനാൽ പവർ വോൾട്ടേജ് നോൺ ലീനിയർ ആണ് ഇത് ഈ പുസ്തകത്തിൽ എവിടെയോ ഉണ്ട് യഥാർത്ഥത്തിൽ അത് അധ്യായമായിരിക്കും ഈ അധ്യായത്തിൽ ലീനിയർ സർക്യൂട്ട് മാത്രം കേന്ദ്രീകരിക്കുക ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സിദ്ധാന്തങ്ങൾ നോൺ ലീനിയർ സർക്യൂട്ടുകൾക്ക് ബാധകമല്ല ഈ സാഹചര്യത്തിൽ r പവറിന് ബാധകമല്ല ലീനിയർ സർക്യൂട്ടിനായി പോകുക പരീക്ഷയുടെ വിശദീകരണത്തിനായി രേഖീയത തത്വം ഈ കണക്ക് 1 ആയി പരിഗണിക്കുന്നു ഒരു വോൾട്ടേജ് സ്രോതസ്സും ഇവിടെ ഇടത് വശത്ത് ഒരു റെസിസ്റ്ററും R ലോഡ് റെസിസ്റ്ററും അതിലൂടെ കറന്റ് ഒഴുകുന്നു r ന് ഇടയിൽ സ്വതന്ത്രമല്ലാത്ത ഒരു ലീനിയർ സർക്യൂട്ടിനിടയിൽ ഈ ഭാഗം ഒരു ലീനിയർ സർക്യൂട്ട് ആണ് എന്നാൽ സ്വതന്ത്ര സ്രോതസ്സുകളില്ലാതെ ഇത് വോൾട്ടേജാണ് ഇത് r ഒരു ലോഡ് റെസിസ്റ്റൻസ് R ആണ് അവയുടെ പ്രവാഹം അതിലൂടെ ഒഴുകുന്നു ഇപ്പോൾ ഒരു ചോദ്യം v 5 വോൾട്ട് ആണെങ്കിൽ ആ സമയത്ത് i 1 ആമ്പിയർ ആണെന്ന് കരുതുക ഞാൻ അതിനെ v 10 വോൾട്ട് ആക്കുകയാണെങ്കിൽ i 2 ആമ്പിയർ ആയിരിക്കണം കാരണം v നെ 2 കൊണ്ട് ഗുണിച്ചാൽ i 2 കൊണ്ട് ഗുണിക്കണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സർക്യൂട്ട് ഒരു രേഖീയ അവകാശമാണ് അതിനാൽ ആ പ്രോപ്പർട്ടി r ആയിരിക്കണം ഈ സാഹചര്യത്തിൽ ലീനിയർ സർക്യൂട്ട് വോൾട്ടേജ് സോഴ്സ് v ഉപയോഗിച്ച് ആവേശഭരിതമാണ് ഞാൻ ഇവിടെ വോൾട്ടേജ് സോഴ്സ് v യിൽ പറഞ്ഞു ഇത് ഇൻപുട്ടായി വർത്തിക്കുന്നു സർക്യൂട്ട് ലോഡ് റെസിസ്റ്റൻസ് r ഉപയോഗിച്ച് അവസാനിപ്പിക്കും ഉദാഹരണത്തിന് v 100 വോൾട്ട് ആണെങ്കിൽ ആ സമയത്ത് കറന്റ് 20 ആമ്പിയർ ആണെന്ന് കരുതുക എന്നാൽ നമ്മൾ v 10 വോൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കറന്റ് 2 ആമ്പിയർ ആയിരിക്കും കാരണം അവ ഗുണിച്ചാൽ k 0 1 എന്ന് പറയുക അതിനാൽ അത് അനുസരിച്ച് രേഖീയത തത്വമാണ് അതിന്റെ അവസ്ഥ തൃപ്തിപ്പെടുത്തേണ്ടതുമാണ് അടുത്തത് ചിത്രം 2 ൽ കാണിച്ചിരിക്കുന്ന v 3 വോൾട്ടും സർക്യൂട്ടിന്റെ v 6 വോൾട്ടും i0 നിർണ്ണയിക്കുക ഈ സാഹചര്യത്തിൽ ഒരു ആശ്രിത വോൾട്ടേജ് ഉറവിടം vx ഉണ്ട് ഈ സമവാക്യങ്ങളിലൂടെ ഞങ്ങൾ കെവിഎൽ കെസിഎൽ പഠിച്ചു അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ വോൾട്ടേജ് vx ഉം ഒരു ആശ്രിത വോൾട്ടേജ് ഉറവിടം vx ഉം ആണ് യഥാർത്ഥത്തിൽ vx 2 r i1 ഇത് vx ആണ് ഈ സാഹചര്യത്തിൽ എന്തുചെയ്യാൻ കഴിയും r പ്രയോഗിക്കുക r ന് ഇടയിൽ 2 മെഷ് ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് തീർച്ചയായും ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ട് അത് നിലവിലെ ഉറവിടമല്ല അതിനാൽ ഞങ്ങൾ കെവിഎൽ പ്രയോഗിക്കുകയും അതിനനുസരിച്ച് ഇത് ശരിയാക്കുകയും അത് ഒരു സർക്യൂട്ട് ആണോ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒരു രേഖീയമാണോ അല്ലയോ എന്ന് തെളിയിക്കുക ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കെവിഎൽ പ്രയോഗിക്കുന്നു ഈ മെഷ് 1 മെഷ് 2 എന്നിവ ഞങ്ങൾ കെവിഎൽ പ്രയോഗിക്കുന്നുഇത് വീണ്ടും വീണ്ടും പറയുന്നില്ല ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ കറന്റ് i0 ആണ് ഈ കറന്റ് ഇവിടെയുണ്ട് ഈ കറന്റ് r i0 ആണെന്ന് അടയാളപ്പെടുത്തി ഇവിടെ കറന്റ് i0 ആണ് കെവിഎല്ലിന് രണ്ട് മെഷുകൾ പ്രയോഗിച്ചാൽ രണ്ട് സമവാക്യങ്ങൾ ലഭിക്കും ഒന്ന് 12 i1 4 i l 2 v a 0 എന്നിട്ട് ലഭിക്കും 4 i1 16 i2 v vx 0 എന്നാൽ vx 2 i1 അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വോൾട്ടേജ് v ആണ് v 3 വോൾട്ടും v 6 വോൾട്ടും വരുമ്പോൾ i0 കണ്ടെത്തുക ഈ v 3 വോൾട്ട് ലഭിച്ച ശേഷം സർക്യൂട്ട് പരിഹരിക്കുക i0 328 ആമ്പിയർ ലഭിക്കും V 6 വോൾട്ട് ചെയ്യുമ്പോൾ 28 ആമ്പിയർ എന്ന് വിളിക്കുന്ന i0 6 r കാണുക അതിനർത്ഥം അത് 3 വോൾട്ട് ആയിരിക്കുമ്പോൾ 328 ആണെങ്കിൽ 6 വോൾട്ട് വോൾട്ടേജ് ഇരട്ടിയാകുന്നു കറന്റും 628 ആമ്പിയർ ഇരട്ടിയാക്കുന്നു സോഴ്സ് വോൾട്ടേജ് ഇരട്ടിയാക്കുമ്പോൾ i0 ഇരട്ടിയാകുമെന്ന് ഇത് വ്യക്തമാക്കുന്നു അതിനാൽ സർക്യൂട്ടിൽ ലീനിയർ സർക്യൂട്ട് ഉണ്ട് സമാനമായി മറ്റൊന്ന് i 5 ആമ്പിയറും സർക്യൂട്ടിന്റെ i 10 ആമ്പിയറും ആയിരിക്കുമ്പോൾ v0 നിർണ്ണയിക്കുന്നു അതിനാൽ i r ഈ i യഥാർത്ഥത്തിൽ നിലവിലെ ഉറവിടമാണ് നിലവിലെ ഉറവിടം r v0 കണ്ടെത്തുന്നതിന് നൽകിയിരിക്കുന്നു ഈ വോൾട്ടേജ് v0 ആണ് v0 യഥാർത്ഥത്തിൽ 4 r i2 ഇത് v0 ആണ് ഈ സാഹചര്യത്തിൽ i 5 ആമ്പിയർ ആയിരിക്കുമ്പോൾ v0 കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ i 10 ആമ്പിയർ ആയിരിക്കുമ്പോൾ ഇത് 5 ആമ്പിയർ ആണ് 5 ആമ്പിയർ മുതൽ 10 ആമ്പിയർ വരെ വൈദ്യുതധാര ഇരട്ടിയാകുന്നുവെങ്കിൽ സ്വാഭാവികമായും v0 ഇത് പരിഹരിക്കും അത് ഇരട്ടിയാക്കേണ്ടതുണ്ട് അതനുസരിച്ച് അത് പരിഹരിക്കുക ഈ കറന്റ് i ആണ് i ഈ ദിശയാണ് ഈ 5 ആമ്പിയർ ഇ r i1 അതേ ദിശയാണ് അടിസ്ഥാനപരമായി i1 i അല്ലെങ്കിൽ i i1 KVL r മെഷ് 2 ൽ പ്രയോഗിച്ചാൽ I1 I 12 i2 2 i1 0 ആയിരിക്കും കെവിഎൽ മെഷ് 2 ൽ പ്രയോഗിക്കുന്നത് മനസ്സിലാക്കാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും എഴുതുന്നില്ല അതിനാൽ i2 i1 6 അതിനാൽ v0 4 i2 അതിനാൽ i 5 ആമ്പിയർ അതിനർത്ഥം i1 5 amp i i1 i2 i1 6 ഇവിടെ ഇത് നൽകിയിരിക്കുന്നു ഇവിടെ i2 r 56 ആമ്പിയർ v0 എന്നിവയും r 4 i2 v0 i2 206 വോൾട്ട് എന്നിവ പറഞ്ഞു ഇപ്പോൾ i 10 ആമ്പിയർ ആയിരിക്കുമ്പോൾ i1 ഉം 10 ആമ്പിയർ i2 i1 6 അല്ലെങ്കിൽ 106 ആമ്പിയർ അതിനാൽ v0 4 i1 4060 വോൾട്ട് കറന്റ് 5 ആമ്പിയർ ആയിരിക്കുമ്പോൾ ഇത് 2060 വോൾട്ട് ആയിരുന്നു i 5 ആമ്പിയർ ഞാൻ 10 ഇരട്ടിയാക്കുമ്പോൾ വോൾട്ടേജും ഇരട്ടിയായി അതിൽ നിന്ന് സർക്യൂട്ട് ഒരു രേഖീയ അവകാശമാണെന്ന് പറയാൻ കഴിയും അടുത്തത് സൂപ്പർപോസിഷൻ തത്വമാണ് ഇത് ഇതുപോലെയാണ് ഒരു സർക്യൂട്ടിന് രണ്ടോ അതിലധികമോ സ്വതന്ത്ര സ്രോതസ്സുകളുണ്ടെങ്കിൽ വേരിയബിളിന് ഓരോ സ്വതന്ത്ര ഉറവിടത്തിന്റെയും സംഭാവന നിർണ്ണയിക്കാനും അവ ചേർക്കാനും കഴിയും ഞങ്ങൾക്ക് രണ്ടോ അതിലധികമോ സ്വതന്ത്ര സ്രോതസ്സുകളുണ്ടെന്ന് കരുതുക തുടർന്ന് മറ്റ് ഉറവിടങ്ങൾ r ആയിരിക്കണമെന്ന് ഒരു സമയത്ത് പരിഗണിക്കുക അവ കൂട്ടിച്ചേർക്കുക തുടർന്ന് ഈ സമീപനത്തെ ഒരു സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നു സൂപ്പർപോസിഷൻ എന്ന ആശയം രേഖീയ സ്വത്തവകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു മൂലകത്തിലൂടെയോ വോൾട്ടേജിലൂടെയോ വൈദ്യുതധാരയിലൂടെയുള്ള വൈദ്യുതധാര അല്ലെങ്കിൽ വോൾട്ടേജ് ഒരു മൂലകത്തിലുടനീളം ഒരു ലീനിയർ സർക്യൂട്ടിലെ ഒരു മൂലകമാണ് ഓരോ സ്വതന്ത്ര സ്രോതസ്സും കാരണം ആ മൂലകത്തിലൂടെയുള്ള വോൾട്ടേജിലൂടെയോ വോൾട്ടേജിലൂടെയോ ആണ് സൂപ്പർ സ്ഥാനം പ്രയോഗിക്കുമ്പോഴെല്ലാം ഒരു സമയം സ്വതന്ത്ര ഉറവിടം മാത്രം പരിഗണിക്കുക സ്വതന്ത്ര സ്രോതസ്സ് മാത്രമേ അവർ ആശ്രിത ഉറവിടം ഉപയോഗിക്കുകയുള്ളൂവെങ്കിൽ സർക്യൂട്ടിൽ കേടുകൂടാതെയിരിക്കും അവ ഓഫ് ചെയ്യാൻ കഴിയില്ല അതിനർത്ഥം ഒരു സമയം ഒരെണ്ണം പരിഗണിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മൂലകത്തിലൂടെയുള്ള വൈദ്യുതധാര അല്ലെങ്കിൽ മൂലകത്തിലുടനീളമുള്ള വോൾട്ടേജ് സ്വതന്ത്രമായി നിർമ്മിക്കുകയും തുടർന്ന് ലഭിക്കുന്നതെന്തും ചേർക്കുകയും ചെയ്യുക സർക്യൂട്ട് മൊത്തത്തിൽ സെർവ് ചെയുക എന്നത് സൂപ്പർ പൊസിഷനായിത്തീരും ഈ സമീപനം നല്ലതാണെങ്കിൽ സൂപ്പർപോസിഷൻ കേസ് ശരിയാണ് പക്ഷേ ഇത് r കണക്കുകൂട്ടും ഇത് r കൂടുതൽ സമയം ചെലവഴിക്കും അതിനാൽ r സൂപ്പർപോസിഷൻ പ്രയോഗിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം ഒരു കാര്യം ഒരു സ്വതന്ത്ര സ്രോതസ്സായി പരിഗണിക്കുക അത് ഒരു സമയത്ത് ഒരു സ്വതന്ത്ര സ്രോതസ്സായി പരിഗണിക്കുക ഒരു സമയം ഒരു സ്വതന്ത്ര സ്രോതസ്സ് മാത്രമേയുള്ളൂ മറ്റെല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും ഓഫാണ് ഇതിനർത്ഥം എല്ലാ വോൾട്ടേജ് ഉറവിടത്തെയും 0 വോൾട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക അതായത് r ഷോർട്ട് സർക്യൂട്ട് ആ വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം കൂടാതെ ഓരോ നിലവിലെ ഉറവിടവും 0 ആമ്പിയർ ആകുമ്പോൾ അത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് വോൾട്ടേജ് ഉറവിട ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ലളിതവും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ സർക്യൂട്ട് ആൺ അതിനെപ്പറ്റി ഞങ്ങൾ പിന്നീട് കുറച്ച് ഉദാഹരണങ്ങൾ കാണും ഒരു സമയം ഒരെണ്ണം പരിഗണിക്കുക അത് നിലവിലെ ഉറവിടമാണെങ്കിൽ അത് തുറക്കുക കാരണം ഒരു സമയത്ത് ഒരു ഉറവിടം മാത്രം പരിഗണിക്കേണ്ടതുണ്ട് ആശ്രിത ഉറവിടങ്ങളും സ്വതന്ത്ര സ്രോതസ്സുകളും വേരിയബിളുകളാൽ നിയന്ത്രിക്കപ്പെടുന്നു അവ കേടുകൂടാതെയിരിക്കും പക്ഷേ ആശ്രിത ഉറവിടം ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ കഴിയില്ല കാരണം അവയുടെ മൂല്യങ്ങൾ നിലവിലെ അല്ലെങ്കിൽ വോൾട്ടേജുകളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ പിന്നീട് എങ്ങനെ ശരിയാണെന്ന് അവർ കാണും സർക്യൂട്ട് അനാലിസിസ് സൂപ്പർപോസിഷനിൽ കൂടുതൽ ജോലികൾ വളരെ നിസ്സാരമായി ഉൾപ്പെട്ടേക്കാം ഇത് ഒരു വലിയ പോരായ്മയാണ് ലീനിയറിറ്റിയിൽ സൂപ്പർപോസിഷൻ മികച്ചതാണ് ഇക്കാരണത്താൽ ഉറവിടം മൂലമുള്ള വൈദ്യുതിയെ ഇത് ബാധകമല്ല കാരണം റെസിസ്റ്റർ നിരീക്ഷിക്കുന്ന വൈദ്യുതി വോൾട്ടേജിന്റെ ചതുരത്തെയോ വൈദ്യുതധാരയുടെ ചതുരത്തെയോ ആശ്രയിച്ചിരിക്കുന്നു ഇത് വൈദ്യുതിക്ക് ബാധകമല്ല പക്ഷേ വോൾട്ടേജിനും കറന്റിനും ഇത് ബാധകമാണ് അതിനാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് v നിർണ്ണയിക്കുക ആ വോൾട്ടേജ് കണ്ടെത്തണം v 2 i പൊതുവേ കാരണം ഇത് നിലവിലെ i ആണ് മാത്രമല്ല ഇത് സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കുന്നു ഒരു വോൾട്ടേജ് ഉറവിടം സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടം 12 വോൾട്ട് ഒരു സ്വതന്ത്ര നിലവിലെ ഉറവിടം എന്നിവ നിർമ്മിക്കണം ഇത് 6 ആമ്പിയർ ആണ് ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യും ആദ്യം സൂപ്പർപോസിഷൻ സിദ്ധാന്തം പ്രയോഗിച്ചുകൊണ്ട് r നിർമ്മിക്കുക എന്നതാണ് എന്തുചെയ്യും ഒരു സമയം ഒരു ഉറവിടം മാത്രമേ എടുക്കുകയുള്ളൂ അത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കുക അതിനാൽ നിലവിലെ ഉറവിടം ഓഫുചെയ്യുമ്പോൾ അതായത് r 6 ആമ്പിയർ ഉറവിടം ഓഫുചെയ്യുമ്പോൾ ഇതാണ് സർക്യൂട്ട് ഇതാണ് r എന്ന സർക്യൂട്ട് ആ സമയത്ത് 6 ആമ്പിയർ കറന്റ് i1 ആയിരിക്കുമ്പോൾ സർക്യൂട്ട് നമ്മൾ ശരിയായി എടുത്ത ഈ i1 ലൂടെ കറന്റ് ഒഴുകുന്നു നിലവിലെ ഉറവിടം ഉള്ളപ്പോൾ 12 വോൾട്ട് വോൾട്ടേജ് ഉറവിടം ഒരു സമയം ഷോർട്ട് സർക്യൂട്ട്മാണ് ഇത് ഒരു നിലവിലെ സ്രോതസ്സാണെങ്കിൽ അത് തുറക്കേണ്ടതുണ്ട് അത് ഒരു വോൾട്ടേജ് സ്രോതസ്സാണെങ്കിൽ അത് ആ സമയത്ത് ഹ്രസ്വമാക്കേണ്ടതുണ്ട് ഇവിടെ കറന്റ് എടുക്കുന്നു ഈ ബ്രാഞ്ചിനായി i3 ആണ് ഇത് എടുത്തത് അതിനർത്ഥം മുമ്പത്തെ സർക്യൂട്ടിലെ r i യഥാർത്ഥത്തിൽ r i1 r i3 കാരണം ഇത് r വോൾട്ടേജ് v ഈ വോൾട്ടേജ് v1 ആണ് കാരണം സൂപ്പർപോസിഷൻ അപ്പോൾ വോൾട്ടേജ് v2 ആണ് അതിനാൽ നേരത്തെ സർക്യൂട്ടിൽ യഥാർത്ഥത്തിൽ ഇത് നിലവിലെ i ആണ് സൂപ്പർപോസിഷൻ സിദ്ധാന്തം കാരണം ഈ രണ്ട് വ്യത്യസ്ത സർക്യൂട്ട് ലഭിച്ചതിന് ശേഷം ഇപ്പോൾ 2 Ω പ്രതിരോധത്തിന് നിലവിലെ ഉറവിടം തുറക്കുമ്പോൾ അത് നിലവിലെ i1 ഉം r വോൾട്ടേജ് ഉറവിടം ചെറുതാകുമ്പോൾ നിലവിലെ ഉറവിടവും i3 ആണ് അടിസ്ഥാനപരമായി i r i1 i3 v1 r 2 i1 v2 2 i3 v v1 v2 കാരണം ഇവിടെ നമ്മൾ ഒരു സമയത്ത് ഒരു ഉറവിടം എടുക്കുന്നതിനാലാണ് ഇത് ഇവിടെ v1 ഇവിടെ v2 അതിനാൽ അടിസ്ഥാനപരമായി ഇത് v1 v2 ആയി മാറും ഈ സാഹചര്യത്തിൽ i1 കറന്റ് എന്താണെന്ന് കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ് ഇവിടെ KVL പ്രയോഗിച്ചാൽ അത് 4 2 ആയിരിക്കും ഇത് ലളിതമായ സർക്യൂട്ടാണ് അടിസ്ഥാനപരമായി 6 i1 12 അതിനാൽ i1 2 ആമ്പിയർ അല്ലെങ്കിൽ ഇത് അതിനാൽ i1 2 ആമ്പിയർ അതായത് v1 2 2 4 വോൾട്ട് ഇത് r v1 ആണ് അതുപോലെ തന്നെ ഈ സർക്യൂട്ട് പരിഹരിച്ചാൽ അടിസ്ഥാനപരമായി നമുക്ക് നിലവിലെ ഡിവിഷൻ രീതി അറിയാമെന്ന് പഠിച്ചിട്ടുണ്ട് ഇത് അടിസ്ഥാനപരമായി ഒരു സമാന്തര സർക്യൂട്ട് ആണ് ഈ 4 Ω ഉം ഈ 2Ω ഉം സമാന്തരമാണ് 6 ആമ്പിയർ കറന്റ് ഈ 4 Ω ഉം ഈ 2Ω ഉം സമാന്തരമായി ഇവിടെ പ്രവേശിക്കുന്നു അപ്പോൾ നിലവിലെ ഡിവിഷൻ രീതിയിൽ i3 എന്തായിരിക്കും ഇതിലൂടെയാണ് i3 കണ്ടെത്തേണ്ടത് ഈ നിലപാട് 4 അതിനാൽ 44 2 ഇത് 4 ഉം ഇത് 2 r 6 ഉം ആണ് ഇത് യഥാർത്ഥത്തിൽ 4 ആമ്പിയർ ആണ് നിലവിലെ ഡിവിഷൻ രീതിയിൽ നിന്ന് നേരിട്ട് i3 4 ആമ്പിയറിന് ശരിയായ വഴി കണ്ടെത്താനാകും R i3 4 ആമ്പിയർ ആണെങ്കിൽ v2 r 2 i3 അതായത് 2 4 അതായത് r 8 വോൾട്ട് ഇവിടെ നമുക്ക് v1 4 വോൾട്ട് ലഭിച്ചു ഇവിടെ നമുക്ക് v2 8 വോൾട്ട് ലഭിച്ചു അപ്പോൾ v എന്താണ് v v1 1 v2 ആയിരിക്കും 4 8 അതായത് r 12 വോൾട്ട് ഇത് സൂപ്പർപോസിഷൻ സിദ്ധാന്തമനുസരിച്ച് v ആണ് എന്നാൽ ഈ സർക്യൂട്ട് പരിഹരിച്ചുകൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് മൊത്തത്തിൽ ഈ സർക്യൂട്ട് പരിഹരിക്കുക കൂടാതെ r ഈ v 12 വോൾട്ട് അല്ലെങ്കിൽ ഇത് കണ്ടെത്തുകയും ചെയ്യുക ഇതെല്ലാം ഇപ്പോൾ ഉണ്ട് ഒരു പരിശോധനയ്ക്ക് ഈ r i1 i3 6 ആമ്പിയർ v 12 വോൾട്ട് എന്നിവ പരിഹരിക്കുക ഫലം പരിശോധിക്കുന്നത് എളുപ്പത്തിൽ r കണ്ടെത്താനും സർക്യൂട്ട് പരിഹരിക്കാനും i 6 ആമ്പിയർ എന്ന് കാണാനും കഴിയും കാരണം ഇവിടെ പരിഹരിക്കുമ്പോൾ ഇവിടെ i1 r 2 ആമ്പിയർ ലഭിച്ചു ഇവിടെ പരിഹരിക്കുമ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിനായി നമുക്ക് i3 4 ആമ്പ് ലഭിച്ചു അതിനാൽ i സൂപ്പർപോസിഷൻ സിദ്ധാന്തം i യഥാർത്ഥത്തിൽ i1 i3 2 4 6 ആമ്പിയർ അത് i 6 ആമ്പിയർ ആണെങ്കിൽ പ്രതിരോധം 2Ω ആയിരുന്നു അതിനാൽ 2 6 12 വോൾട്ട് ഈ സർക്യൂട്ട് പരിഹരിച്ചതായി അർത്ഥമാക്കുന്നു i 6 ആമ്പിയറും v 6 12 വോൾട്ടും ലഭിക്കും ഇതെല്ലാം ഞങ്ങൾ ചെയ്തു അതിനർത്ഥം r ഇവിടെ ഇതിന് v 12 വോൾട്ട് നൽകിയിരിക്കുന്നു അതിനാൽ പ്രശ്നം പരിഹരിച്ചു സൂപ്പർപോസിഷൻ സിദ്ധാന്തവും r മൊത്തത്തിൽ സർക്യൂട്ടും പരിഹരിക്കുന്നു സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് ചിത്രം 4 ലെ സർക്യൂട്ടിൽ ix നിർണ്ണയിക്കുന്നു ഈ സാഹചര്യത്തിൽ ix എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് അതിനർത്ഥം ഈ ix കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ ഒരു ആശ്രിത വോൾട്ടേജ് ഉറവിടം 5 ix ഉണ്ട് ആശ്രിത വോൾട്ടേജ് ഉറവിടത്തിന് അത് സർക്യൂട്ടിൽ കേടുകൂടാതെയിരിക്കാനും നീക്കംചെയ്യാനും കഴിയില്ല അത് ഓഫ് ചെയ്യാനും കഴിയില്ലെന്നും ഞാൻ പറഞ്ഞു എന്നാൽ ഒരു സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് 4 ആമ്പിയർ ഉണ്ട് ഒരു സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സ് 20 വോൾട്ട് ഉണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും പ്രതിരോധ മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കുന്ന ix എന്താണെന്ന് ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ എന്തുചെയ്യും ഒരു സമയം ഒരു ഉറവിടം പരിഗണിക്കും ഈ വോൾട്ടേജ് ഉറവിടം പരിഗണിക്കും അല്ലെങ്കിൽ നിലവിലെ ഉറവിടം പരിഗണിക്കും വോൾട്ടേജ് ഉറവിടം പരിഗണിക്കുമ്പോൾ ഇത് തുറന്നിരിക്കും നിലവിലെ ഉറവിടം പരിഗണിക്കുമ്പോൾ ഇത് ആ സമയത്ത് ചെറുതായിരിക്കും ഓരോ കേസും ix മാറും അതിനാൽ ഉദാഹരണത്തിന് ix ' ix'ആവും നമുക്ക് കാണാം അതിനാൽ ഈ സാഹചര്യത്തിൽ സർക്യൂട്ട് എന്നത് ആശ്രിത വോൾട്ടിനൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്റക്റ്റായിരിക്കണം അതായത് ix ix ' ix' 'ആയിരിക്കണം 7 ൽ കാണിച്ചിരിക്കുന്നതുപോലെ മാത്രം 4 ആമ്പിയർ നിലവിലെ ഉറവിടം കാരണം ഇപ്പോൾ ix ' കറന്റ് മുതൽ 5 Ω റെസിസ്റ്റർ വരെ സൂപ്പർപോസിഷൻ ഇവിടെ പ്രയോഗിക്കുന്നു അതിനാൽ ഈ വോൾട്ടേജ് ഉറവിടം ഇവിടെ ഹ്രസ്വമാക്കിയിരിക്കുന്നു വോൾട്ടേജ് ഉറവിടം ഇവിടെത്തന്നെ ചെറുതാക്കുന്നു അതിനാൽ 4 ആമ്പിയർ കറന്റ് സ്രോതസ്സ് മാത്രമുള്ളപ്പോൾ വോൾട്ടേജ് ഉറവിടം ഇവിടെ ചെറുതാക്കുകയും കറന്റ് മാത്രം ചെറുതാക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഇതാണ് നിലവിലെ ix Ix ix ' ix' ' അതുപോലെ എല്ലാ മെഷ് r നും അനുസരിച്ച് i1 i2 i3 കാണിച്ചിരിക്കുന്നു ഇവിടെയും ആശ്രിതർ 5 ix' ആയിരിക്കും അതിനാൽ ഇത് ix അല്ല ഇപ്പോൾ വോൾട്ടേജ് ഉറവിടം ഉള്ളപ്പോൾ സമാനമായി ix 'ആണ് വോൾട്ടേജ് ഉറവിടം ഉള്ളപ്പോൾ കറന്റ് സോഴ്സ് ഇല്ല നോക്കൂ കറന്റ് സോഴ്സ് ഇല്ല അത് ആ സമയത്ത് തുറന്നിരിക്കുന്നു അത് ix " ഇവിടെയും ഇത് r 5 ix " അതിനർത്ഥം ഈ സർക്യൂട്ടും ആ സർക്യൂട്ടും ix ' ix' 'എന്നിവയ്ക്കായി പരിഹരിക്കേണ്ടതുണ്ട് തുടർന്ന് ഇത് ചേർക്കുക മൊത്തത്തിൽ ഒരു സർക്യൂട്ടായി ചേർക്കുമ്പോൾ സമാന ഉത്തരം ലഭിക്കും ആദ്യം ഈ സർക്യൂട്ട് ശരിയായി പരിഹരിക്കേണ്ടതുണ്ട് ഒരു നോഡ് a ഉണ്ടെന്നതാണ് ഒരു കാര്യം അതിനാൽ ഈ 4 ആമ്പിയർ കറന്റ് ഇതുപോലെ പോകുന്നു ഇത് r 4 ആമ്പിയർ ആയിരിക്കും ഞങ്ങൾ ഘടികാരദിശയിൽ എടുത്ത ഈ i3 കറന്റ് ഈ i3 നോഡിലേക്ക് പ്രവേശിക്കുന്നു കൂടാതെ ix നോഡും നോഡിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ നോഡ് എ യിൽ KCL പ്രയോഗിച്ചാൽ അത് r i3 ix ആയി മാറും 'രണ്ട് കറന്റും നോഡിലേക്ക് പ്രവേശിക്കുകയും 4 ആമ്പിയർ വിടുകയും ഇത് r 4 ആണ് ഈ സാഹചര്യത്തിൽ ഈ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് കെസിഎൽ ആവശ്യമാണ് ഇതിന് ഇത് r ആണ് സമാനമായി r ഈ i1 4 ആമ്പിയർ ഈ മെഷ് 1 ഈ മുകളിലേക്കുള്ള ദിശയിൽ ഈ i1 4 ആമ്പിയർ അതിനാൽ i1 4 ആമ്പിയർ അതിനാൽ r k r KVL എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയും കൂടാതെ കെസിഎല്ലിനും ഞാൻ പറഞ്ഞ ഈ നോഡിൽ സർക്യൂട്ട് പരിഹരിക്കാൻ കഴിയും ഇതെല്ലാം തന്നിരിക്കുന്നവയാണ് ഇത് r സർക്യൂട്ട് 4 7 7 a ഉം ഇത് സർക്യൂട്ട് 7 b ഉം ആണ് അതിനാൽ കെവിഎൽ പ്രയോഗിക്കുമ്പോൾ മെഷ് 2 ന് 3 എന്ന സമവാക്യം ലഭിക്കും ഇപ്പോൾ അപ്ലൈ ചെയുക കാരണം ഈ KVL KCL എല്ലാം ശരിയായി കടന്നുപോയി അതുപോലെ മെഷ് 3 ന് ഈ r 5 ലഭിക്കും ഇത് ix ന്റെ മറ്റൊരു സമവാക്യമാണ് കൂടാതെ നോഡിൽ ഞാൻ പറഞ്ഞ rkr KCL 4 ix 5 എന്ന് പ്രയോഗിക്കുക അതിനാൽ 3 4 സമവാക്യങ്ങളിൽ 2 5 സമവാക്യങ്ങൾ പകരം വയ്ക്കുക ഒരേസമയം 2 സമവാക്യങ്ങൾ നൽകിയ ശേഷം അത് r 3 i2 2 ix ' 8 ഉം i2 5 ഉം ix' 20 ഉം ആയിരിക്കും ഈ 2 സമവാക്യം പരിഹരിച്ചാൽ 17 ആമ്പിയറിൽ ix ' 52 ലഭിക്കും ഇപ്പോൾ ix " ലഭിക്കാൻ 4 ആമ്പിയർ നിലവിലെ ഉറവിടം വീണ്ടും ഓഫ് ചെയ്യുക അങ്ങനെ സർക്യൂട്ട് ചിത്രം 7 ബിയിൽ കാണിച്ചിരിക്കുന്നതുപോലെ മാറുന്നു ഇവിടെയും മെഷ് 4 ന് KVL പ്രയോഗിക്കുക ഇവിടെ ഞാൻ ഈ സർക്യൂട്ട് എടുക്കുന്ന സ്ഥലത്തെ ഇത് മെഷ് 4 എന്ന് വിളിക്കുന്നു ഇത് ആർ മെഷ് 4 ഇത് മെഷ് 4 ആണ് ഇത് മെഷ് 5 ആണ് കെവിഎൽ ഇവിടെ രണ്ട് കേസുകളിലും പ്രയോഗിച്ച് പരിഹരിക്കുക ഈ സമവാക്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയായി എഴുതാൻ കഴിയും അതിനാൽ മെഷ് 4 അത് 6 i4 i5 5 ix 0 ന് തുല്യമാകും അതുപോലെ മെഷ് 5 സമവാക്യം എഴുതി ആ മെഷ് 5 നോക്കിയാൽ അത് i5 ix ആയി മാറും കാരണം ദിശ കാണും മുകളിലേക്കും താഴേക്കും ഈ സമവാക്യം 9 10 എന്നിവയ്ക്ക് പകരമായി 6 i4 4 ix ' 0 ഇത് 20 ഈ സമവാക്യം ലഭിക്കും ഇത് പരിഹരിച്ചാൽ 17 ആമ്പിയറിൽ ix' ' 16 ലഭിക്കും അതിനാൽ 17 ആമ്പിയറിൽ ix ix ' ix' ' 8 ഇത് പരിഹരിച്ചാൽ ഈ സർക്യൂട്ടിന് സമാന ഉത്തരം ലഭിക്കും 18 ന് 17 ആമ്പിയർ ഇവിടെ ഒരു ലളിതമായ ഉദാഹരണം കൂടി കാണുക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിന്റെ സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് നിർണ്ണയിക്കുക 3 ഉറവിടങ്ങൾ 2 സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടങ്ങൾ ഒരു സ്വതന്ത്ര കറന്റ് ഉറവിടങ്ങൾ ഉണ്ട് ഒരു സ്വതന്ത്ര കറന്റ് ഉറവിടം അതിനാൽ ഒരു സമയം ഒരെണ്ണം എടുക്കുക ആദ്യത്തെ 2 വോൾട്ടേജ് സ്രോതസ്സുകൾ ചുരുക്കി കറന്റ് സോഴ്സ് മാത്രമേയുള്ളൂ ഇത് വളരെ ലളിതമായ കാര്യമാണ് കാരണം 6 Ω 8 എന്നിവ രണ്ടും r ശ്രേണിയിലാണ് ഇവ രണ്ടും ശ്രേണിയിലാണെന്ന് പരിശോധിക്കുക അതിനാൽ 6 8 യഥാർത്ഥത്തിൽ 14 Ω ആണ് എന്നാൽ ഏത് രീതിയിലും കറന്റ് i1 കണ്ടെത്തേണ്ടതുണ്ട് ഈ സർക്യൂട്ട് 8 Ω ആദ്യത്തേതിൽ കറന്റ് i1 ആണ് കാരണം i i1 i2 i3 അതുപോലെ ഈ 16 വോൾട്ട് ഉറവിടം എടുക്കുമ്പോൾ നിലവിലെ ഉറവിടം തുറക്കുകയും മറ്റൊരു വോൾട്ടേജ് ഉറവിടം ചെറുതാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മൂന്നാമത്തേതിന് 12 വോൾട്ട് ഉറവിടത്തിനും നിലവിലെ ഉറവിടം തുറന്നിരിക്കുന്നു മറ്റൊരു വോൾട്ട് ഹ്രസ്വമാണ് ഈ സമയം ഒരു സമയം ഒരു ഉറവിടം ബാക്കിയുള്ളവ ഓഫ് ചെയ്യും അതിനാൽ ഇവിടെ വളരെ ലളിതമായി i1 കണ്ടെത്താനുള്ള വഴി കിട്ടും ഈ i1 ൽ r എന്തായിരിക്കും എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക ഇത് r 8 Ω ഉം 6 Ω ഉം ആണ് അടിസ്ഥാനപരമായി അവ ശ്രേണിയിലാണ് അതിനർത്ഥം ഇത് r 14Ω ഉം ഇത് r 2Ω ഉം ആണ് ഒപ്പം ഈ കറന്റ് സോഴ്സ് 6 ആമ്പിയറും ഉണ്ട് അടിസ്ഥാനപരമായി ഈ 3 കാര്യങ്ങളും സമാന്തരമാണ് അപ്പോൾ i1 എന്തായിരിക്കും ഇത് നിലവിലെ ഡിവിഷൻ രീതി മാത്രമാണ് i1 കണ്ടെത്താൻ ശ്രമിച്ചാൽ i1 22 14 r 4 ആമ്പിയർ ആയിരിക്കും അടിസ്ഥാനപരമായി ഇത് 0 5 ആമ്പിയർ 16 6416 ആയി മാറും അതിനാൽ ഇത് 2 r 8 8 b 16 0 5 ആമ്പിയർ ആകും അതിനാൽ i1 0 5 ആമ്പിയർ ആയിരിക്കുംഇത് വളരെ എളുപ്പമാണ് അതുപോലെ ഇവിടെ i2 എന്തായിരിക്കുമെന്ന് നേരിട്ട് ലഭിക്കും 6 2 ഉം 8 ഉം എല്ലാം ശ്രേണിയിലാണെങ്കിൽ i2 അടിസ്ഥാനപരമായി r ആയിരിക്കും 16 r 16 Ω അതിനാൽ ഈ ദിശയിൽ r i2 1616 1 ആമ്പിയർ ഇത് r 1 ആമ്പിയർ ആണ് അതായത് r i2 തുടർന്ന് r i3 ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ 6 ഈ 16 Ω r ശ്രേണിയിലാണ് അടിസ്ഥാനപരമായി r KVL പ്രയോഗിച്ചാൽ അത് 16 i3 ആയിരിക്കും ടെർമിനൽ 12 0 അതിനാൽ i3 34 ആമ്പിയർ 75 ആമ്പിയർ കെവിഎൽ ഇതുപോലെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ടെർമിനൽ ഏറ്റുമുട്ടൽ ആണ് അതായത് i സൂപ്പർപോസിഷൻ സിദ്ധാന്തം i1 i2 i3 അതിനാൽ ഇ r എന്ന കേസിൽ a b c സർക്യൂട്ട് ഇതെലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് i 1 കണക്കുകൂട്ടലും നൽകിയിട്ടുണ്ട് i2 i3 ഉം ഞാൻ പറഞ്ഞു 0 75 ഒരു സൂപ്പർപോസിഷൻ പ്രയോഗിക്കുകയാണെങ്കിൽ i1 i2 i3 അത് 0 5 1 0 75 0 75 ആമ്പിയർ ആയിരിക്കും ഈ ഉറവിടങ്ങളെല്ലാം പരിഗണിച്ച് ഈ സർക്യൂട്ട് മൊത്തത്തിൽ പരിഹരിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു സൂപ്പർപോസിഷൻ ഉപയോഗിച്ചാലും എനിക്ക് ഒരേ മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് കാണുക ഞങ്ങൾക്ക് ഇത് ലഭിച്ചു